മൂന്നാമത്തെ പ്രവർത്തനം രജിസ്ട്രേഷനാണ് ഔദ്യോഗിക രജിസ്ട്രേഷൻ പകർപ്പവകാശം മുതലായവ ആവശ്യമില്ലാത്ത ഐ പി കളെക്കുറിച്ച് നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് സൃഷ്ടിക്കപ്പെട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സംരക്ഷിക്കപ്പെടുന്നു വ്യാപാരമുദ്രകളും ഡിസൈനുകളും പോലുള്ള രജിസ്ട്രേഷൻ ആവശ്യമുള്ള ഐ പി യുമുണ്ട് പേറ്റന്റുകൾക്ക് രജിസ്ട്രേഷൻ ആവശ്യമാണ് പേറ്റന്റുകൾ ഫയൽ ചെയ്യുന്നതിന് പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിന് മുമ്പായി ഐ പി കേന്ദ്രം ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത ഒരു പ്രവർത്തന വെളിപ്പെടുത്തൽ നേടുക എന്നതാണ് ആദ്യത്തെ പടി ഒരു കണ്ടെത്തൽ വെളിപ്പെടുത്തൽ ഫോം അഥവാ ഐ ഡി എഫ് ഫയൽ ചെയ്യുന്നതിലൂടെയാണ് പ്രവർത്തന വെളിപ്പെടുത്തൽ നടത്തുന്നത് ഐ ഡി എഫിന്റെ അടിസ്ഥാനത്തിൽ ബൌദ്ധിക സ്വത്തവകാശ ഓഫീസിന്റെ സൂക്ഷ്മപരിശോധന കഴിയുന്നതനുസരിച്ചാണ് പേറ്റന്റെബിലിറ്റി തിരച്ചിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഒരു താൽക്കാലിക സ്പെസിഫിക്കേഷൻ ഫയൽ ചെയ്യണോ അതോ പൂർണ്ണമായ സ്പെസിഫിക്കേഷൻ നൽകണോ എന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കാം താൽക്കാലിക സ്പെസിഫിക്കേഷൻ കൂടുതൽ അർത്ഥവത്തായേക്കാവുന്ന സന്ദർഭങ്ങളുണ്ടാകാം ഇതിനെ കുറിച്ച് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തതാണ് ചില സന്ദർഭങ്ങളിൽ പൂർണ്ണമായ സ്പെസിഫിക്കേഷൻ ആയിരിക്കും നല്ലത് മാത്രമല്ല വിദേശ വിപണിയിൽ പ്രവേശിക്കാൻ പി സി ടി അപേക്ഷയിലൂടെ വിദേശരാജ്യങ്ങളിൽ പേറ്റന്റ് ഫയൽ ചെയ്യണോ അതോ സാധാരണ അപേക്ഷയാണോ ഫയൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും തിരുമാനമെടുക്കേണ്ടതാണ് ഇവയൊക്കെയാണ് ഒരു ഐ പി കേന്ദ്രത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഐ പി പരിപാലിക്കുന്നതിലും ഐ പി കേന്ദ്രം ഉൾപ്പെട്ടിരിക്കുന്നു ഇതേ പ്രവർത്തനമാണ് നിങ്ങൾ രേഖകൾ സൂക്ഷിക്കുന്നതിലും കാണുന്നത് ഐ പി സംബന്ധമായ എല്ലാ രേഖകളും സൂക്ഷിക്കുന്നു കൃത്യസമയത്ത് പുതുക്കൽ നടത്തുന്നു വാണിജ്യപരമായ മൂല്യമില്ലാത്ത സാഹചര്യങ്ങളിൽ ഐ പി പുതുക്കുന്നത് തുടരാതെ അതിനെ തിരിച്ചേല്പിക്കുന്ന സംഭവങ്ങളും ഉണ്ട് അത്തരം സാഹചര്യങ്ങളിൽ പുതുക്കൽ ഫീസ് അടയ്ക്കാതിരിക്കുന്നതിലൂടെ അതിനെ ഉപേക്ഷിക്കുന്നതായി കണക്കാക്കും വാണിജ്യപരമായ സാധ്യതകളൊന്നും ഇല്ലാത്ത ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള പ്രതീക്ഷക്കൾക്ക് ഭംഗം വരുമ്പോൾ അപേക്ഷകൾ പിൻവലിക്കാവുന്നതാണ് ഐ പി ഫയൽ ചെയ്യുന്നതുമായി ബന്ധപെട്ടു ധാരാളം രേഖകൾ സൂക്ഷിക്കേണ്ടതായിവരും ഒരു സർവ്വകലാശാലയുടെ ഐ പി വിഭാഗം വളരുന്നതിനനുസരിച്ച് അത് കൈകാര്യം ചെയ്യുന്നതിന് ചില സോഫ്റ്റ്വെയർ ആവശ്യമായി വരും പരിപാലന പ്രവർത്തനത്തിൽ ഇതിനകം അനുവദിച്ച ഐ പി യുടെ ലൈസൻസിംഗ് സംബന്ധമായ രേഖകൾ സൂക്ഷിക്കുന്നതും ഉൾപ്പെടുന്നു ലൈസൻസുകൾ എക്സ്ക്ലൂസീവ് ലൈസൻസുകളാകാം അവ എക്സ്ക്ലൂസീവ് അല്ലാത്ത ലൈസൻസുകളും ആകാം എക്സ്ക്ലൂസീവ് അല്ലാത്ത ലൈസൻസുകളിൽ സർവകലാശാലകൾക്ക് പര്യവേക്ഷണം ചെയ്യാൻ കഴിയുന്ന മോഡലുകളിൽ ഒന്നാണ് ഓപ്പൺ ലൈസൻസിംഗ് മോഡൽ ഇത് വ്യവസായമേഖലയിലെ ആളുകളെ കണ്ടെത്തൽ ഏറ്റെടുക്കാൻ സഹായിക്കുന്നു എന്നാൽ അവർ അത് വാണിജ്യവത്ക്കരിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ വരുമാനം നേടാൻ തുടങ്ങിയാൽ അവർ അത് സർവകലാശാലയുമായി പങ്കിടാൻ തുടങ്ങും അതായത് പര്യവേക്ഷണം ചെയ്യാവുന്ന ഓപ്പൺ ലൈസൻസിംഗ് മോഡലുകൽ ഉണ്ടാകാം കൂടാതെ ഒരു പ്രത്യേക സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട പേറ്റന്റുകളുടെ ഒന്നിലധികം ഉടമകൾ പരസ്പരം ലൈസൻസ് സംബന്ധമായ കാര്യത്തിൽ ധാരണയിൽ എത്തി ഒരു പാറ്റേൺ പൂൾ സൃഷ്ടിക്കുന്നതിലൂടെയും ലൈസൻസിംഗ് നടത്താവുന്നതാണ് ഐ പി കേന്ദ്രത്തിന്റെ പരിപാലന പ്രവർത്തനം ലൈസൻസിംഗിനപ്പുറം മറ്റു ചിലത് കൂടി ഉൾപ്പെട്ടതാണ് അത് വ്യവഹാരം എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പ്രക്രിയയെയും കൂടി ഉൾപ്പെടുന്നതാണ് പേറ്റന്റുകളാൽ പരിരക്ഷിക്കപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒരു വ്യക്തിയെ തടയുന്നതിനുള്ള ഒരേയൊരു മാർഗ്ഗം വ്യവഹാരം നടത്തുകയും നിങ്ങളുടെ പേറ്റന്റ് ഉപയോഗിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ വിലക്കുന്ന തരത്തിൽ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് നേടുകയും ചെയ്യുക എന്നതാണ് ഇത് രണ്ട് തരത്തിൽ സംഭവിക്കാം ഒന്ന് ചില അവസരങ്ങളിൽ നിങ്ങളുടെ ഐ പി ഉപയോഗിച്ചയാൾക്ക് ഒരു സീസ് ആൻഡ് ഡെസിസ്റ് നോട്ടീസ് നല്കുന്നതാണ് അതിലൂടെ അവകാശത്തിലൂടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഐ പി ഉപയോഗിക്കുന്നത് ആ വ്യക്തി തുടരരുത് എന്ന് നിങ്ങൾ അറിയിക്കുന്നത് വിവേകപൂർവ്വമായ ഒരു നടപടിയാണ് ഒരു നോട്ടീസ് ഫയൽ ചെയ്യണമോ അതോ ഒരു ലംഘന സ്യൂട്ട് ഫയൽ ചെയ്യണമോ എന്നത് ഒരു പ്രൊഫഷണൽ എടുക്കേണ്ട തീരുമാനമാണ് നിങ്ങളുടെ പേറ്റന്റ് ലംഘിക്കുന്നത് നിർത്താൻ ഒരു വ്യക്തിയോട് ആവശ്യപ്പെടുന്ന കോടതിയിൽ സമർപ്പിച്ച കേസുകളാണ് ലംഘന സ്യൂട്ടുകൾ അവ ഒരു ഐ പി കേന്ദ്രത്തിന്റെ നിർവ്വഹണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വരാവുന്ന ഡിക്ലറേറ്ററി സ്യൂട്ടുകളും ആകാം ഗവേഷണ ഔട്ട്പുട്ടിനാണ് ഐ പി പരിരക്ഷ ആവശ്യമുള്ളതെന്ന് നമ്മൾ കണ്ടിരുന്നു ഗവേഷണ ഔട്ട് പുട്ട് ഗവേഷണത്തിനുള്ള ചിലവ് എന്ന ഇൻപുട്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഒരു ബജറ്റ് ഇല്ലെങ്കിൽ മാത്രമല്ല ഗവേഷണ പ്രവർത്തനങ്ങളും ഇല്ലെങ്കിൽ ഗവേഷണ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന ഐ പി യും ഉണ്ടാകില്ല അതിനാൽ പേറ്റന്റുകൾ നേടുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്ത അനുവദിച്ചതും വാണിജ്യവത്ക്കരിച്ചതുമായ പേറ്റന്റുകളുടെ എണ്ണം സമർപ്പിക്കേണ്ടിവരുമ്പോഴോ അതായത് ഗവേഷണം എത്രമാത്രം നടന്നു എന്നതിന്റെ അളവുകോൽ ആയ ഇത്തരം മെട്രിക്കുകളും പാറ്റേണുകളും ആവശ്യപ്പെടുമ്പോൾ ഈ നാണയത്തിന്റെ മറുവശം ഗവേഷണത്തിലേക്ക് നിക്ഷേപം നടത്തേണ്ടതുണ്ട് എന്നതാണ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗവേഷണം നടക്കേണ്ടതുണ്ട് ഐ പി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ആശയം ഗവേഷണ സംസ്കാരത്തെ പ്രാപ്തമാക്കുകയും സുഗമമാക്കുകയും ചെയ്യുന്നു അതായത് അവിടെ ഐ പി പരിരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗവേഷണം നടത്തുന്ന രീതിയെ സ്വാധീനിക്കാൻ കഴിയും അതിനാൽഗവേഷണത്തിനുള്ള സമയവും വിഭവങ്ങളും നൈപുണ്യവും ചെലവഴിക്കുന്നതെല്ലാം ഇൻപുട്ടാണ് ഗവേഷണത്തിൽ നിന്ന് പുറത്തുവരുന്ന ഫലങ്ങളെ ഐ പി സംരക്ഷിക്കുന്നു ഔട്ട് പുട്ട് പല സ്ഥലങ്ങളിൽ ഉണ്ടാകാം അത് ഗവേഷണ പ്രവർത്തനങ്ങളിൽ ആയിരിക്കാം അത് പ്രസിദ്ധീകരണത്തിന് മുമ്പ് ഗവേഷണപ്രവർത്തിയിൽ കണ്ടെത്തേണ്ടത് ആയിരിക്കാം അത് പിഎച്ച് ഡി തീസിസുകളിൽ ആകാം അത് കൺസൾട്ടൻസി പ്രോജക്റ്റുകളിൽ ആകാം ഇത് വ്യവസായ മേഖലയുമായി ചേർന്നുള്ള സംയുക്ത സംരംഭത്തിലാകാം അത് മറ്റ് സ്ഥാപനങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും തമ്മിലുള്ള ധാരണാപത്രത്തെ അടിസ്ഥാനമാക്കിയും ആയിരിക്കാം അതിനാൽ ഈ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഐ പി പുറത്തുവരാം ഈ വിശാലമായ വീഥിയിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തൽ പുറത്തുവരുന്നുണ്ടോ എന്നാണ് ഐ പി കേന്ദ്രം നിരീക്ഷിക്കുന്നത് അപ്പോൾ എന്താണ് ഒരു ഐ പി കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഗവേഷണ വാണിജ്യവത്ക്കരണമാണ് പ്രധാന ലക്ഷ്യമെന്ന് ഞങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു ഗവേഷണമില്ലെങ്കിൽപ്പോലും അദ്ധ്യാപകരും വിദ്യാർത്ഥികളും ഐ പി ക്ക് സാധ്യതയുള്ള കാര്യങ്ങളിലാണോ ഏർപെടുന്നതെന്നു പ്രവചിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉദാഹരണങ്ങളായിട്ടുണ്ട് ഐ പി ക്ക് ഇതിനെ സുഗമമാക്കാൻ കഴിയും ഐ പി കേന്ദ്രത്തിന്റെ ലക്ഷ്യം യാഥാർഥ്യവത്കരിക്കാൻ ഐ പി കേന്ദ്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണം കൂടാതെ ഐ പി കേന്ദ്രത്തിന്റെ ലക്ഷ്യങ്ങളെയും ദൌത്യങ്ങളെയും കുറിച്ച് വ്യക്തമായ സൂചന ഉണ്ടായിരിക്കണം ഇത് സാധാരണയായി ഐ പി നയം ബൌദ്ധിക സ്വത്ത് നയം അല്ലെങ്കിൽ ബൌദ്ധിക സ്വത്തവകാശ നയം എന്ന പേരിലറിയപ്പെടുന്ന ഒരു പ്രമാണത്തിൽ പകർത്തിയിട്ടുണ്ട് ബൌദ്ധിക സ്വത്തവകാശ നയം എന്താണെന്നും ഐ പി നയത്തിന് ഒരു സ്ഥാപനത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നും നമുക്ക് ഇപ്പോൾ നോക്കാം ഒന്ന് ഇതിന് ഒരു സ്ഥാപനത്തിന്റെ ഗവേഷണ ശ്രമങ്ങളെ സമന്വയിപ്പിക്കാൻ കഴിയും ഒരു സ്ഥാപനത്തിൽ വ്യത്യസ്ത വകുപ്പുകൾ ഉണ്ടായിരിക്കാം എല്ലാം വകുപ്പുകളും വ്യത്യസ്ത തരം പ്രോജക്ടുകളിലും ഗവേഷണ പ്രവർത്തനങ്ങളിലും ഉൾപ്പെടുന്നു ഇത്തരം പ്രവർത്തനങ്ങളെ സമന്വയിപ്പിക്കാൻ ഈ നയത്തിന് കഴിയും ഗവേഷണത്തിൽ ഏർപ്പെടുന്നതിന്റെ പ്രയോജനങ്ങൾ എന്താണെന്നും ഗവേഷണം വാണിജ്യവത്ക്കരിക്കപ്പെട്ടാൽ വരുമാനം പങ്കിടൽ അല്ലെങ്കിൽ ലാഭവിഹിതം ഉണ്ടാകാൻ പോകുന്നുവെന്നും ഇത് പൊതുവായി പ്രചരിക്കുന്ന ഒന്നായിരിക്കുമെന്നും ഈ നയം അവരോട് പറയുന്നു വാക്കുകളാൽ രേഖപ്പെടുത്തി ഇത് ഒരു പ്രമാണം ആക്കുന്നു സർവ്വകലാശാലയിലെ എല്ലാവരുമായും പങ്കിടുന്ന ഒരു രേഖയായിരിക്കും ഇത് ഗവേഷണം എന്താണെന്ന് മനസിലാക്കുന്നതിനും ഗവേഷണത്തിന്റെ വാണിജ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും എല്ലാവരും ഒരേ നിലവാരത്തിൽ ആകുന്നതിനു വേണ്ടിയാണ് ഇത് ഐ പി കേന്ദ്രത്തിന്റെ ദൌത്യം സ്ഥാപനത്തിന്റെ ദൌത്യവുമായി വിന്യസിക്കാനും സഹായകമാകും സ്ഥാപനത്തിന് നമ്മൾ നേരത്തെ കണ്ടത് പോലെ പൊതുവായി അദ്ധ്യാപനം ഗവേഷണം എന്നീ ലക്ഷ്യങ്ങളുണ്ട് ഇവയെല്ലാം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യങ്ങളാണ് ഐ പി കേന്ദ്രങ്ങളുടെ ദൌത്യം സ്ഥാപനത്തിന്റെ ലക്ഷ്യവുമായി സമന്വയത്തിൽ ആകേണ്ടതുണ്ട് അതിനാൽ സ്ഥാപനം ചെയ്യുന്ന കാര്യങ്ങളും ഐ പി കേന്ദ്രം ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെട്ടിരിക്കണം ഇത് ഐ പി നയത്തിൽ വ്യക്തമാക്കിയിരിക്കണം ഗവേഷണ ഫലത്തിന്റെ ഗുണനിലവാരത്തെയും അളവിനെയും സ്വാധീനിക്കാൻ ഐ പി നയത്തിന് കഴിയും ഒരു നയത്തിന് എപ്രകാരം ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ അതിശയിക്കുന്നുണ്ടാകാം നയം ഭാവിയിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് അതിനെ നല്ല കീഴ്വഴക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രമാണമായും കണക്കാക്കാം ഗവേഷണത്തിന്റെ ഫലങ്ങൾ പേറ്റന്റ് ചെയ്യപ്പെടുമെന്നും അവ വാണിജ്യവത്ക്കരിക്കപ്പെടുമ്പോൾ വരുമാനം കണ്ടെത്തൽ നടത്തിയ വ്യക്തികളുമായി പങ്കിടുമെന്നും നിങ്ങൾ ഐ പി നയത്തിൽ പരാമർശിക്കുമ്പോൾ അത് വ്യക്തികൾക്ക് തങ്ങളുടെ ഗവേഷണഫലത്തിന്റെ അളവും ഗുണനിലവാരവും നോക്കുന്നതിനുള്ള ഒരു പ്രചോദനമായി മാറുന്നു ഐ പി കേന്ദ്രത്തിന്റെ ദൌത്യത്തെക്കുറിച്ചുള്ള പ്രസ്താവനയുടെ ഒരു രേഖയാണ് ഈ നയരേഖ ഐ പി കേന്ദ്രം സേവനങ്ങൾ ചെയ്യുന്നു മിക്ക ഐ പി കേന്ദ്രങ്ങളിലും വാണിജ്യവത്ക്കരണത്തിലൂടെ ഐ പി കേന്ദ്രം വരുമാനം നേടാൻ തുടങ്ങുന്നതുവരെ ഐ പി കേന്ദ്രത്തിന്റെ സേവനം സ്ഥാപനം പൂർണമായും സബ്സിഡൈസ് ചെയ്യുന്നു കൂടാതെ ഐ പി കേന്ദ്രം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ സാമ്പത്തികമേഖലയെ മെച്ചപ്പെടുത്തുന്നു അതിന് വളരാനുള്ള വഴികളുണ്ട് ഐ പി കേന്ദ്രം സർവ്വകലാശാലയ്ക്കും വ്യവസായ മേഖലയ്ക്കും ഇടയിൽ കാര്യങ്ങൾ സുഗമമാക്കുന്ന ഒരു ഫെസിലിറ്റേഷൻ സെന്റർ ആയും പ്രവർത്തിക്കുന്നു ഒരു ഐ പി കേന്ദ്രത്തിന്റെ ദൌത്യം സാധാരണഗതിയിൽ ഇവയൊക്കെയാണ് സ്ഥാപനങ്ങൾ നടത്തുന്ന ഗവേഷണഫലങ്ങൾ വ്യവസായത്തിലേക്ക് കൈമാറുന്നതിന് ഗവേഷകരെ സഹായിക്കുക വാണിജ്യപരമായി പ്രായോഗികതലത്തിൽ ഉപയോഗിക്കുക്ക ഉപഭോക്തൃ വികസനം പൊതു നന്മ തുടങ്ങിയവയാണ് അവയിൽ ചിലത് ഇത് വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു ദൌത്യ പ്രസ്താവനയാണ് മാത്രമല്ല ഇത് ഏത് ഐ പി കേന്ദ്രത്തിനും ഉണ്ടായിരിക്കാവുന്ന ഒന്നാണ് ഐ പി നയം പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഈ സാമൂഹിക ഉത്തരവാദിത്തം ഐ പി കേന്ദ്രങ്ങൾ ഒരു അക്കാദമിക് അന്തരീക്ഷത്തിലെ ബിസിനസ്സ് ഓഫീസർമാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സാമൂഹിക ഉത്തരവാദിത്തം ഉൾപ്പെടുന്ന ഭാഗം നന്നായി വ്യക്തമാക്കിയാൽ സി എസ് ആർ ഫണ്ടിംഗിന് അർഹതയുണ്ടാകും അവിടെയുള്ള മറ്റ് ഫണ്ടുകൾക്കും യോഗ്യത നേടാൻ കഴിയും 2030ൽ നേടേണ്ടതായി ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ചിട്ടുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതുമായിരിക്കണം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ സാമൂഹിക ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഐ പി കേന്ദ്രങ്ങളെ സമൂഹനന്മയ്ക്ക് പ്രയോജനപ്പെടുന്ന സ്ഥാപനങ്ങളാക്കി മാറ്റുന്നത് പേറ്റന്റുകൾ ഫയൽ ചെയ്യുന്നതും വാണിജ്യവത്ക്കരിക്കുന്നതും മാത്രമല്ല നമ്മൾ നോക്കുന്നത് സ്ഥാപനത്തിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഒരു സാമൂഹിക ഉത്തരവാദിത്തവുമുണ്ട് അത് ഐ പി നയത്തിൽ വ്യക്തമായി പറയാനും കഴിയണം കൂടാതെ സർവ്വകലാശാലയ്ക്ക് സാമൂഹ്യക്ഷേമം കണക്കിലെടുത്ത് പൊതുജനങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്താനും കഴിയും ഒരു ഐ പി പോളിസിയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ഒരു ഐ പി നയത്തിന്റെ ഘടന എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ഐ പി നയം ഒരു ആമുഖത്തോടെ ആരംഭിക്കും അതിന് ലക്ഷ്യങ്ങളുണ്ടാകും അതിൽ എന്താണ് പകർപ്പവകാശം പേറ്റന്റ് ബൌദ്ധിക സ്വത്തവകാശം എന്താണ് തുടങ്ങിയവയെ കുറിച്ച് വ്യക്തത വരുത്തുന്ന നിർവചനങ്ങൾ ഉണ്ടാകും ഇതിന് വിവിധ നിർവചനങ്ങൾ രഹസ്യാത്മക വിവരങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകും ഐ പി യുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് അതായത് ഐ പി യുടെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്നതിനെ കുറിച്ച് ഒരു വ്യവസ്ഥയും ഉണ്ടായിരിക്കും ഇവിടെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം പകർപ്പവകാശത്തിന്റെ കാര്യം വരുമ്പോൾ പകർപ്പവകാശം മെറ്റീരിയൽ സൃഷ്ടിച്ച പ്രൊഫസർമാരുടെയും വിദ്യാർത്ഥികളുടെയും ഉടമസ്ഥതയിലായിരിക്കുമെന്ന് സ്ഥാപനം പറഞ്ഞേക്കാം എന്നാൽ പേറ്റന്റുകളുടെ കാര്യത്തിൽ സ്ഥാപനങ്ങൾ തന്നെ അത് കൈവശം വയ്ക്കാൻ തീരുമാനിച്ചേക്കാം ഈ അവകാശങ്ങളുടെ സൃഷ്ടിയിലും ഉടമസ്ഥാവകാശത്തിലും ഉൾപ്പെട്ടിരിക്കുന്ന വ്യത്യാസങ്ങൾ മനസിലാക്കി നിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന വ്യത്യാസങ്ങളാണ് ഇവ അതിനാൽ ബൌദ്ധിക സ്വത്തവകാശത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർവ്വകലാശാലയിലെ ഓരോ പങ്കാളികൾക്കും വ്യക്തമാകുന്ന തരത്തിൽ ഒരു പ്രസ്താവന ഐ പി നയത്തിൽ ഉൾക്കൊള്ളിക്കണം ഐ പി അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഐ പി മാനേജ്മെന്റ് വെളിപ്പെടുത്തലുകൾ എങ്ങനെ ശേഖരിക്കണം മുതലായവ വ്യക്തമായി നിർണ്ണയിക്കേണ്ട കാര്യങ്ങളാണ് ഐ പി ഫയൽ ചെയ്യുന്നതിന് ചിലവ് എത്രയാകും എന്ന് തീരുമാനിക്കാൻ ഒരു ഐ പി കമ്മിറ്റി ഉണ്ടായിരിക്കണം ഒരു കണ്ടെത്തൽ പ്രാദേശികമായി പരിരക്ഷിക്കപ്പെടേണ്ടതാണോ അതോ വിദേശ രാജ്യങ്ങളിൽ സംരക്ഷിക്കേണ്ടതാണോ എന്ന് നിർണയിക്കാൻ ചില ഉദാഹരണങ്ങളും ഐ പി കമ്മിറ്റി പരിശോധിക്കും സാധാരണയായി ഐ പി യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അന്നേ ദിവസം ഹാജരായിട്ടുള്ള അധ്യാപകരെ ഉൾപ്പെടുത്തിയാണ് ഒരു ഐ പി കമ്മിറ്റി രൂപീകരിക്കുന്നത് വെളിപ്പെടുത്തലിന്റെ വിലയിരുത്തൽ എന്നത് ഐ പി നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് ഐ പി കേന്ദ്രമാണ് ചെയ്യുന്നത് വിദേശത്ത് അപേക്ഷ ഫയൽ ചെയ്യുന്ന പി സി ടി ഫയലിംഗിനെ ക്കുറിച്ചും ഐ പി നയത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് പുതുക്കലുകൾ രൂപപരിണാമങ്ങൾ ചുമതലകൾ മുതലായവയും ഐ പി നയത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട് രൂപപരിണാമങ്ങളെ ക്കുറിച്ചുള്ള ഭാഗം ഒരു ഐ പി നയത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടാറുണ്ട് ഒരു പ്രൊവിഷണൽ ഫയൽ ചെയ്യുന്നതിലൂടെ പേറ്റന്റുകൾ ഫയൽ ചെയ്യുന്ന പതിവ് രീതികൾ ഉണ്ട് അടിയന്തരമായി നടത്തപ്പെടേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രൊവിഷണലിന് ഫയൽ ചെയ്യും അതല്ലെങ്കിൽ പൂർണ്ണമായി ചെയ്യാൻ 12 മാസം വരെ സമയം എടുക്കും അടിയന്തിര സാഹചര്യങ്ങളിൽ താൽക്കാലിക പേറ്റന്റ് ഫയൽ ചെയ്യാമെന്നും എന്നാൽ പൂർണ്ണ പേറ്റന്റിന് ഫയൽ ചെയ്യുന്നതിന് മുൻപ് ഒരു പേറ്റന്റെബിലിറ്റി സെർച്ച് നടത്തിയിരിക്കണം എന്നും ഐ പി നയത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് പേറ്റന്റ് ഗവേഷണം യഥാർത്ഥത്തിൽ ഐ പി യുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനുള്ള ഒരു നടപടിയാണ് അതിനാൽ ചില സാഹചര്യങ്ങളിൽ ഐ പി വാണിജ്യവത്ക്കരിക്കുന്നതിൽ സർവകലാശാലകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നെങ്കിൽ അത് ഐ പി യുടെ ഗുണനിലവാരം കാരണവും ആയിരിക്കാം വ്യവസ്യമേഖലയ്ക്ക് ഒരു ഐ പി യുടെ ഗുണനിലവാരം വേഗത്തിൽ വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ട് ഐ പി യുടെ ഗുണനിലവാരം മോശമാണെങ്കിൽ നടപ്പിലാക്കാൻ പ്രയാസമായ പേറ്റന്റുകൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ പേറ്റന്റുകളിൽ കുറച്ച് പണി നടത്തേണ്ടിവരും എന്ന് വ്യയസായമേഖലയ്ക്ക് തോന്നുകയാണെങ്കിൽ സർവ്വകലാശാലയുമായി അവർ പങ്കാളിയാകണമെന്നില്ല ഇക്കാരണങ്ങളാൽ കണ്ടെത്തലുകളെ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ച് വിവരിക്കുന്ന രീതിയിൽ ആയിരിക്കണം പേറ്റന്റുകൾ സമർപ്പിക്കേണ്ടത് പ്രൊവിഷണൽ പേറ്റന്റിൽ നിന്ന് പൂർണ്ണ പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിന് മുൻപ് പേറ്റന്റെബിലിറ്റി ഓഡിറ്റും നടത്തും എന്നും ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് വാണിജ്യവത്കരണത്തിന് ഈ നയം സഹായകമാണ് ലൈസൻസിംഗിലൂടെ വാണിജ്യവത്ക്കരിക്കാവുന്ന വ്യത്യസ്ത മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഈ നയം സഹായിക്കും ഓപ്പൺ ലൈസൻസിംഗ് പരിഗണിക്കേണ്ടതാണ് പ്രതേകിച്ചും പൊതു ധനസഹായമുള്ള സർവകലാശാല പരിഗണിക്കേണ്ട ഒരു മാതൃകയാണെന്ന് ഞാൻ ഇതിനകം നിർദ്ദേശിച്ചിരുന്നു ഇത് സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യുന്നതിനെക്കുറിച്ചും അത് എപ്രകാരം സംഭവിക്കാം എന്നും പ്രചരണമാർഗ്ഗങ്ങളെക്കുറിച്ചുമാണ് കണ്ടെത്തൽ വാണിജ്യവത്കരിക്കാനും വ്യാപിപ്പിക്കാനുമുള്ള ഒരു മാർഗ്ഗമാണ് പ്രചരണം രേഖകൾ സൂക്ഷിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചും ഐ പി നയത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട് രേഖകൾ എങ്ങനെ സൂക്ഷിക്കും അവ എവിടെ സൂക്ഷിക്കും അത് കേന്ദ്രീകൃതമായി കൈകാര്യം ചെയ്യുമോ മുതലായ കാര്യങ്ങൾ ഐ പി നയത്തിൽ വിശദീകരിക്കണം രഹസ്യാത്മകത ഐ പി യിൽ ധാരാളം രഹസ്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു മൂന്നാം കക്ഷികൾക്ക് വെളിപ്പെടുത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് വെളിപ്പെടുത്തൽ നയം ഉണ്ടായിരിക്കണം കാരണം ഒരു വെളിപ്പെടുത്തൽ കരാറിലൂടെ പരിരക്ഷിക്കപ്പെടുന്ന ഓരോ വെളിപ്പെടുത്തലും പേറ്റന്റിനെ അസാധുവാക്കില്ല അത് ഒരു പേറ്റന്റിന്റെ പുതുമയെ ഇല്ലാതാക്കുന്നില്ല അതിനാൽ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റിലൂടെ സംരക്ഷിക്കെപ്പെടുന്ന എല്ലാ വെളിപ്പെടുത്തലുകളും ഒരു കണ്ടെത്തലിന്റെ പുതുമയെ ബാധിക്കുന്നില്ല അത് രഹസ്യാത്മകതയെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗത്ത് വ്യക്തമായി പറഞ്ഞിരിക്കണം വരുമാനം പങ്കിടുന്നതിനെക്കുറിച്ചും ഒരു പ്രസ്താവന ഉണ്ടായിരിക്കണം സർവ്വകലാശാലകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് വരുമാനം പങ്കിടുക എന്നത് അതുപോലെ ലാഭം പങ്കിടുക എന്ന ഒരു കാര്യവുമുണ്ട് അവിടെ സർവ്വകലാശാല ലാഭം മാത്രമേ പങ്കുവയ്ക്കുകയുള്ളൂ പേറ്റന്റ് കൈകാര്യം ചെയ്യുന്നതിനും പുതുക്കുന്നതിനും ഫയൽ ചെയ്യുന്നതിനുമുള്ള ചിലവുകൾ കുറച്ച ശേഷം പങ്കിടുന്ന ലാഭവിഹിതമാണ് ഇത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ എന്തൊക്കെയാണെന്നും നയത്തിൽ വ്യക്തമാക്കണം അത് നടപ്പാക്കുന്നതിന് എന്ത് നടപടികൾ സ്വീകരിക്കും മൂന്നാം കക്ഷികളുമായി എങ്ങനെ ഇടപെടും അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും തർക്ക പരിഹാരത്തിനായി എന്ത് ചെയ്യണം മുതലായവയും നയത്തിൽ ഉണ്ടാകും ഐ പിയുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിനുള്ളിൽ ഉണ്ടാകാവുന്ന തർക്ക പരിഹാരത്തെക്കുറിച്ചും അതിൽ പരാമർശിക്കുന്നു ഉയരാൻ സാധ്യതയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു ആന്തരിക സംവിധാനവും ഉണ്ടായിരിക്കണം ഐ പി കേന്ദ്രം പോലുള്ള ചില റെഗുലേറ്ററി ആവശ്യതകൾ നിർബന്ധമാണെന്ന് നമ്മൾ കണ്ടു ഒരു സ്ഥാപനം ഗവേഷണത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ആ സ്ഥാപനത്തിന്റെ ദൌത്യമാണ് സ്ഥാപനം ഗവേഷണത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഗവേഷണത്തിന്റെയും ഫലങ്ങളുടെയും പരിരക്ഷണം ഏത് തരത്തിലുള്ള ഗവേഷണമാണ് വാണിജ്യവത്ക്കരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സ്ഥാപനത്തിന് തീരുമാനം എടുക്കേണ്ടി വരും സാധാരണയായി അടിസ്ഥാന ഗവേഷണം വാണിജ്യവത്കരിക്കപ്പെടുന്നില്ല വാണിജ്യവത്ക്കരിക്കപ്പെടുന്നത് പ്രായോഗിക ഗവേഷണം മാത്രമാണ് നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ വ്യാപനത്തെ വാണിജ്യവത്കരണമായി കണക്കാക്കാവുന്നതാണ് ഗവേഷണത്തിന്റെ ഗുണനിലവാരവും അളവും പരിശോധിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമാണ് ഐ പി കേന്ദ്രം അതിനാൽ ഇത് സർവ്വകലാശാലയിൽ നടക്കുന്ന ഗവേഷണത്തിന്റെ ഗുണനിലവാരവും അളവും മനസിലാക്കാൻ സഹായകമാകുന്ന സർവ്വകലാശാലയിലെ ഒരു ആന്തരിക അവയവം പോലെ പ്രവർത്തിക്കുന്നു സ്ഥാപനത്തിൽ നടക്കുന്ന ഗവേഷണത്തെ ആശ്രയിച്ചാണ് ഐ പി കേന്ദ്രത്തെ തരംതിരിക്കുന്നത് മൂന്ന് തരം ഐപി സെന്ററുകൾ ഉണ്ട് നിങ്ങൾക്ക് ഒരു ആന്തരിക ഐ പി കേന്ദ്രം സ്ഥാപിക്കാം ഐ പി കേന്ദ്രം സ്ഥാപനത്തിനുള്ളിൽ നിന്ന് നീക്കങ്ങളും പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നു ഒരു ബാഹ്യ ഐ പി കേന്ദ്രം ഉണ്ടായിരിക്കാം ഇവിടെ ഐ പി കേന്ദ്രത്തെ ഒരു മൂന്നാം കക്ഷി പ്രവർത്തിപ്പിക്കുന്നു ഇതിന് സ്ഥാപനത്തിനുള്ളിൽ ഒരു ഓഫീസും ഇല്ല ഇത് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് മൂന്നാം കക്ഷികളാണ് നിങ്ങൾക്ക് ഒരു മിശ്രിത മോഡലും ഉണ്ടായിരിക്കാം ഈ മോഡൽ പ്രകാരം ആന്തരിക കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഒരു ചെറിയ ഓഫീസ് ഉണ്ടാകാം പക്ഷെ അന്തിരക കാര്യങ്ങളിൽ എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടില്ല ഒരു ഐ പി കേന്ദ്രം ഒന്നിലധികം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അതിനാൽ ആന്തരിക പ്രവർത്തനങ്ങൾ വളരെ കുറവാണ് മറിച്ച് അത് ആന്തരികവും ബാഹ്യവുമായ പ്രവർത്തനങ്ങളുടെ ഒരു മിശ്രിതമാണ് ചില പ്രവർത്തനങ്ങൾ ടീം ചെയ്യുന്നു ആന്തരികമായ മറ്റ് പ്രവർത്തനങ്ങൾ ഒരു മൂന്നാം കക്ഷി സേവന ദാതാവിനെ ഏൽപ്പിക്കുന്നു അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടെക്നോളജി മാനേജർസ് എ യു ടി എം പൊതു ഗവേഷണ സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക കൈമാറ്റം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത സൂചിപ്പിക്കുന്ന നാല് കാരണങ്ങൾ പട്ടികപ്പെടുത്തുന്നു 1 പൊതുനന്മയ്ക്കായി ഗവേഷണത്തിന്റെ വാണിജ്യവൽക്കരണം 2 നിലവിലുള്ള ടെക്നോളജി ട്രാൻസ്ഫർ നിലനിർത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ള ഗവേഷകരെ റിക്രൂട്ട് ചെയ്യുന്നതിനും നിങ്ങളെ അനുവദിക്കുന്നു ഇത് വ്യവസായ മേഖലയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും കൂടുതൽ ഗവേഷണത്തിനായി വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഒരു സ്ഥാപനം എന്ത് കൊണ്ടാണ് സാങ്കേതിക കൈമാറ്റത്തിൽ ഏർപ്പെടേണ്ടത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആവശ്യം ഒരു ഐ പി കേന്ദ്രം സ്ഥാപിക്കുന്നതിലൂടെ അല്ലെങ്കിൽ സാങ്കേതിക കൈമാറ്റത്തിൽ ഏർപ്പെടുന്നതിലൂടെ ഒരു സർവകലാശാലയ്ക്ക് ലഭിക്കുന്ന പ്രയോജനം എന്താണ് ആദ്യത്തെ കാര്യം ചെയ്യപ്പെടുന്ന എല്ലാ ഗവേഷണങ്ങളും പരിരക്ഷിക്കപെടുകയും വിപണിയിൽ എത്തുകയും ചെയ്യുന്നതിനാൽ പൊതുനന്മ എന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അതിനാൽ സർവ്വകലാശാലയ്ക്കുള്ളിൽ സംഭവിക്കുന്നതെന്തും അവിടെ തന്നെ തങ്ങിനിൽകുന്നില്ല അത് വിപണിയിലേക്ക് എത്തപ്പെടുന്നു അതിൽ ഒരു പൊതുനന്മയുണ്ട് സാങ്കേതികവിദ്യയുടെ കൈമാറ്റം ഗുണനിലവാരമുള്ള ഗവേഷകർക്ക് പ്രതിഫലം നൽകുന്നതിനും ഉയർന്ന നിലവാരമുള്ള ഗവേഷണങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ നിലനിർത്തുന്നതിനും റിക്രൂട്ട് ചെയ്യുന്നതിനുമുള്ള ഒരു മാർഗമായി മാറ്റാമെന്ന് AUTM മാറുന്നു സാങ്കേതിക കൈമാറ്റത്തിന്റെ ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ ഗുണനിലവാര ഗവേഷണത്തെ തിരിച്ചറിയുന്ന സജ്ജീകരണങ്ങൾ നടക്കുകയും ഗുണനിലവാരമുള്ള ഗവേഷണങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളെ തിരിച്ചറിഞ്ഞു പരിരക്ഷിക്കുകയും വാണിജ്യവത്ക്കരിക്കുകയും ചെയ്യുന്നു അവ വാണിജ്യവത്കരിക്കപ്പെടുമ്പോൾ ഒരു ഭാഗം റോയൽട്ടിയായിട്ട് ഗവേഷകർക്ക് തിരികെ നൽകുന്നു അത്തരമൊരു സംസ്കാരം മികച്ച പ്രതിഭകളെ സർവകലാശാലയിലേക്ക് ആകർഷിക്കുമെന്ന് AUTM നമ്മോട് പറയുന്നു ഒരിക്കൽ സർവകലാശാല അതിന്റെ ഗവേഷണത്തെ വാണിജ്യവത്ക്കരിക്കാനും വ്യവസായത്തിന് പേറ്റന്റ് ലഭിച്ച സാങ്കേതികവിദ്യ പ്രസിദ്ധീകരിക്കാനും തുടങ്ങിയാൽ സർവകലാശാലയുമായി കൂടുതൽ ബന്ധം പുലർത്താൻ താൽപ്പര്യമുണ്ടാകും ഇത് സ്വാഭാവികമായത് കൊണ്ട് അടുത്ത ബന്ധം കെട്ടിപ്പടുക്കുക എന്നത് വ്യക്തമായ ഒരു അനന്തരഫലമാണ് ഗവേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പണം കേന്ദ്രത്തിന്റെ നടത്തിപ്പിനും കൂടുതൽ ഗവേഷണത്തിനുമായി പ്രയോജനപ്പെടുത്താനുമായി ഉപയോഗിക്കാം അടുത്തതായി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഐ പി കേന്ദ്രങ്ങൾ ഉണ്ടാകാം എന്ന് നോക്കാം പൂർണ തോതിൽ ഒരു ഐ പി കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നതിന് ആ മേഖലയിൽ പ്രവർത്തിപരിചയമുള്ളവരെക്കുറിച്ച് കൂടുതൽ മനസിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങൾക്ക് ശാസ്ത്ര പശ്ചാത്തലമുള്ള വ്യക്തികളെ അതായത് ശാസ്ത്രജ്ഞരെ ആവശ്യമാണ് അത് പോലെ ആധാരരേഖകളുടെ വിവിധ വശങ്ങളെക്കുറിച്ചും പ്രതേകിച്ച് നിയപരമായ രേഖകൾ കൈകാര്യം ചെയ്യുന്നതിനും നിങ്ങൾക്ക് അഭിഭാഷകരെ ആവശ്യമാണ് വാണിജ്യവൽക്കരണത്തെ കുറിച്ചും അതിന്റെ വിവിധ സാധ്യതകളെക്കുറിച്ചും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന പേറ്റന്റ് ഏജന്റുകളെയും നിങ്ങൾക്ക് ആവശ്യമാണ് ഫലത്തിൽ നിങ്ങൾക്ക് നാല് മേഖലയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കണം ശാസ്ത്ര മേഖല നിയമ മേഖല എം ബി എ അല്ലെങ്കിൽ ബിസിനസ്സ് മാനേജുമെന്റിൽ പശ്ചാത്തലമുള്ള ബിരുദധാരികൾ ഉൾപ്പെടുന്ന പരിപാലന മേഖല എന്നിവയാണ് കൂടാതെ നിയമമേഖലയെയും ശാസ്ത്രമേഖലയെയും ബന്ധിപ്പിക്കുന്ന വ്യക്തികളെ പേറ്റൻറ് അറ്റോർണി അല്ലെങ്കിൽ പേറ്റൻറ് ഏജന്റുമാർ എന്ന് വിളിക്കുന്നു ഐ പി എം കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഐ പി കേന്ദ്രങ്ങൾ നമ്മൾ പറഞ്ഞ ആന്തരിക ഐ പി കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ പൊതുനിക്ഷേപത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ ഐ പി എം സെല്ലുകളാണ് സർവ്വകലാശാലയ്ക്കുള്ളിൽ നിന്ന് തന്നെ കാര്യനിർവ്വഹണം നടത്തുന്ന അഡ്മിനിസ്ട്രേറ്റർമാരാണ് ഇവർ ബാഹ്യമായ ഐ പി കേന്ദ്രം ഒരു സ്വത്രന്ത സ്ഥാപനം അഥവാ ഒരു സേവന ദാതാവ് ഒരു സ്ഥാപനത്തിനോ സർവ്വകലാശാലയ്ക്കോ വേണ്ടി ഐ പി കേന്ദ്രം നടത്തുന്നതാണ് സമ്മിശ്ര ഇനം ഐ പി എം സെൽ Mixed IP Cell ഉണ്ട് ഇത് ഒരു ചെറിയ അല്ലെങ്കിൽ പുതിയ ഐ പി എം സെല്ലാണ് ഇത് ഒരു കമ്പനിയുമായോ നിയമ സ്ഥാപനവുമായോ സംവദിച്ച് ജോലി പൂർത്തിയാക്കുന്നു ആന്തരിക ഐ പി കേന്ദ്രത്തിന് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടായിരിക്കണം ഉപകരണങ്ങൾ ജീവനക്കാർ അത് കൂടാതെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന തരത്തിലുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാൽ ബാഹ്യകേന്ദ്രത്തിന് അല്ലെങ്കിൽ മിശ്രിത കേന്ദ്രത്തിന് സർവകലാശാലയുമായി ചേർന്ന് വിദൂരമായി പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾ ഉള്ളതുകൊണ്ട് അടിസ്ഥാന സൌകര്യങ്ങൾ പരിമിതപ്പെടുത്താം ഐ പി കേന്ദ്രത്തിന്റെ ചിലവ് എത്രയാകും എന്നതിനെ കുറിച്ച് AUTM ചർച്ച ചെയ്തപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതാണ് 2003ലെ ആന്വൽ ലൈസൻസിങ് സർവ്വേ അനുസരിച്ച് ഒരു ഔദ്യോഗിക വെളിപ്പെടുത്തൽ പ്രകാരം ഗവേഷണമേഖലയിൽ 2 ദശലക്ഷം ഡോളർ ചിലവാക്കപ്പെടുന്നു എന്നാണ് ഇത് ഇൻപുട്ട് എത്ര എന്നതിനെ അനുസരിച്ചാണ് കണക്കാക്കുന്നത് അതിനാൽ സർവ്വേ പറയുന്ന പ്രകാരം ഗവേഷണത്തിനായി ചെലവഴിക്കുന്ന ഓരോ 2 ദശലക്ഷം ഡോളറിനും അതിൽ ലാബുകൾ സ്ഥാപിക്കുക ശമ്പളത്തിനുള്ള പണമടയ്ക്കുക മുതലായവ ഉണ്ടാകും ഗവേഷകരെ സംബന്ധിച്ചടത്തോളം ഗവേഷണഫലം ഔപചാരികമായി വെളിപ്പെടുത്തുക മാത്രമാണ് അഞ്ച് ദശലക്ഷം ഡോളറിന് ഒരു യു എസ് പേറ്റന്റ് ഫയൽ ചെയ്യുന്നു ഗവേഷണത്തിനായി ചിലവാക്കുന്നതിനെ കുറിച്ച് ഇതാണ് നിങ്ങൾ മനസിലാക്കേണ്ട വിവരങ്ങൾ ഐ പി ആർ ഔട്ട്പുട്ട് ആയി പുറത്തുവരുന്നതിന് ഈ ഇൻപുട്ട് ആവശ്യമാണ് ഗവേഷണത്തിനായി ചെലവഴിക്കുന്ന ഓരോ 8 5 ദശലക്ഷത്തിനും ഒരു ടെക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ലൈസൻസിംഗ് കരാർ ചെയ്യപ്പെടുന്നു അതിനാൽ ഐ പി അല്ലെങ്കിൽ പരിരക്ഷ വരുന്നതിന് മുമ്പായി നിങ്ങൾ ചിലവാക്കേണ്ടത് എത്രത്തോളം എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു സ്ഥാപനത്തിന് ഏകദേശം 100 ദശലക്ഷം ഡോളറിന്റെ ഗവേഷണ ബജറ്റ് ഉണ്ടെങ്കിൽ 50 വെളിപ്പെടുത്തലുകൾ നേടാനാകും നിങ്ങൾക്ക് 20 പേറ്റന്റ് അപേക്ഷകൾ സമർപ്പിക്കാം നിങ്ങൾക്ക് അതിൽ 11 അല്ലെങ്കിൽ 12 എണ്ണം വ്യവസായത്തിന് ലൈസൻസ് ചെയ്യാൻ കഴിയും ഒരു സർവ്വകലാശാലയ്ക്ക് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഐ പി കേന്ദ്രം ഒരു ദീർഘകാല നിക്ഷേപമായിരിക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസിലായിട്ടുണ്ടാവണം അതിൽ ഗവേഷണവുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഉൾപ്പെടുന്നത് കൊണ്ട് അത് ദീർഘകാല പ്രതിബദ്ധത ഉള്ളതാണ് ഇത് കുറച്ചുനാളുകൾ ഓടിക്കാനുള്ളതും തുടർന്ന് പണി നിർത്താനുള്ളതുമല്ല ഇത് ഒരു ദീർഘകാല നിക്ഷേപമായിരിക്കണം ലൈസൻസുള്ള ഒരു ഉൽപ്പന്ന സാങ്കേതികവിദ്യ വിപണന ഉൽപ്പന്നമാകാൻ 5 വർഷമെടുക്കുമെന്ന് പറയപ്പെടുന്നു അതിനാൽ നടത്തിയ നിക്ഷേപവും നിക്ഷേപം തിരിച്ചുപിടിക്കുന്നതും തമ്മിൽ ദീർഘകാല അകലമുണ്ട് ഇത് സ്ഥാപനങ്ങളെ അടിസ്ഥാനമാക്കി ചെയ്യേണ്ട കാര്യമാണ് ഒരു ഐ പി കേന്ദ്രം സ്ഥാപിക്കുന്നതിന് പണം ചിലവഴിക്കുന്ന സ്ഥാപനം അതിന്റെ ലാഭം കുറച്ച് സമയത്തിനുശേഷം മാത്രമേ അറിയുന്നുള്ളു ഐ പി സി കൾ അല്ലെങ്കിൽ ഐ പി കേന്ദ്രങ്ങൾ വിജയിക്കാൻ 7 മുതൽ 10 വർഷം വരെ ആവശ്യമാണ് വരുമാനം ലഭ്യമായിത്തുടങ്ങുന്ന സമയം വരെ സർവ്വകലാശാല ഓഫീസിന്റെ ചെലവുകൾക്ക് സഹായധനം നൽകേണ്ടിവരും ആന്തരികമായ ഈ മോഡൽ അല്ലാതെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ബാഹ്യ മോഡലും നമുക്ക് സമഗ്രമായി വിശകലനം ചെയ്യാവുന്നതാണ് ദീർഘകാല നിക്ഷേപം ഉൾപ്പെട്ടിരിക്കുന്നത് കാരണം പേറ്റന്റുകൾ ഫയൽ ചെയ്യുന്നതിനും ഒരു പുതിയ സംസ്കാരം ആരംഭിക്കുന്നതിനും സ്ഥാപനങ്ങൾ ബാഹ്യ ഓർഗനൈസേഷനുകളുമായി അനൌപചാരിക അടിസ്ഥാനത്തിൽ ഇടപെടുന്നത് അവർക്ക് കൂടുതൽ ലാഭകരമാകും ഇത് ഒരു ചെറിയ ഓഫീസ് സ്ഥാപിക്കുന്നതിലൂടെ ചെലവ് കുറയ്ക്കുകയും മൂന്നാം കക്ഷി സേവന ദാതാക്കളും പങ്കാളികളും തമ്മിൽ ബന്ധപ്പെടാൻ സഹായകമാവുകയും ചെയ്യും മാത്രമല്ല സർവ്വകലാശാലയിലെ ചില സ്ഥാപനങ്ങൾക്ക് ഒത്തുചേരാനും ഒരു പൊതു ഐ പി കേന്ദ്രം സ്ഥാപിക്കാനും കഴിയും കൊച്ചി സർവകലാശാലയിൽ ഒരു കേന്ദ്രം ഉണ്ട് അതിനെ ഐ യു സി ഐ പി ആർ എസ് എന്ന് വിളിക്കുന്നു അത് ഒരു അന്തർ സർവ്വകലാശാലാകേന്ദ്രമാണ് ഐ പി കേന്ദ്രം ഒരു അന്തർ സർവ്വകലാശാല കേന്ദ്രത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് ഒരു ഐ പി കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള ചെലവ് കുറയ്കക്കാൻ സഹായകമാണ് നിങ്ങൾക്ക് സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഐ പി കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാ സി എസ് ഐ ആർ ലാബുകൾക്കും പൊതുവായ ഒരു ഐ പി കേന്ദ്രം ഉണ്ടെങ്കിൽ അത് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങൾക്ക് സുഗമമാക്കാൻ സഹായകമാകും ഗവേഷണ ഔട്ട്പുട്ട് എപ്രകാരം ബൌദ്ധിക സ്വത്തവകാശങ്ങളുമായും ഗവേഷണത്തിലെ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നമ്മൾ കണ്ടു നമുക്ക് ഈ നവീകരണ വ്യവസ്ഥയെക്കുറിച്ച് വിശാലമായ വീക്ഷണം ഉണ്ടായിരിക്കണം നവീകരണ വ്യവസ്ഥ പലർക്കും പല അർത്ഥതലങ്ങൾ ഉള്ളതാണ് പക്ഷേ പ്രധാനമായും ഇതിൽ പൊതുമേഖലയും സ്വകാര്യമേഖലയും തമ്മിലുള്ള ഒരുതരം സഹകരണമാണ് സാധാരണ ശ്രദ്ധിക്കപ്പെടുന്നത് നിർവചനം അനുസരിച്ച് നവീകരണത്തിന് ഒരു കൂട്ടായ സ്വഭാവമുണ്ട് അതിൽ തുറന്ന നവീകരണ മാതൃകകളുണ്ട് നവീകരണത്തിൽ അല്ലെങ്കിൽ നവീകരണ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറിവിന്റെ വ്യാപനമാണ് അതിനാൽ ഏത് വിധത്തിൽ അത് സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും അത് സമ്പദ്വ്യവസ്ഥയിലുടനീളം പുതിയ അറിവിന്റെ വ്യാപനമുണ്ടാക്കുന്ന രീതിയിൽ സജ്ജീകരിക്കണം അവിടെ ആർ ആൻഡ് ഡി ചെലവുകൾ മാത്രമല്ല പ്രധാനമായിട്ടുള്ളത്ഭരണകൂടവും അറിവിന്റെ ഈ വ്യാപനത്തിൽ കുറച്ച് അപകടസാധ്യത ഏറ്റെടുക്കുന്നു ഒരു ഐ പി കേന്ദ്രം ഒരു നവീകരണ വ്യവസ്ഥയുമായി എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഐ പി കേന്ദ്രം ഉപയോഗിക്കാനും ഗവേഷണത്തെയും വികസനത്തെയും നിരീക്ഷിക്കാനും അളക്കാനും കഴിയും അത് നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കാനും കഴിയും നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ ഐ പി ആർ യഥാർത്ഥത്തിൽ നവീകരണത്തിന്റെ ഒരു ചുരുക്കെഴുത്താണ് ലോക ബൌദ്ധിക സ്വത്തവകാശ സംഘടന World Intellectual Property Organization ഐ പി ആറിനെ പ്രചോദിപ്പിക്കുകയും നവീകരണം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നവീകരണം മനസിലാക്കുന്നതിനുള്ള ചുരുക്കെഴുത്താണ് ഐ പി ആർ അവ നവീകരണ വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ ഐ പി കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന സമയോചിതമായ പ്രവർത്തനങ്ങളാകാം കൂടാതെ സാമൂഹിക ആവശ്യങ്ങളും വിപണി ആവശ്യങ്ങളും ലക്ഷ്യമിട്ടുള്ള തൽക്ഷണ ഗവേഷണത്തിനായി ലക്ഷ്യബോധമുള്ള ഗവേഷണങ്ങളുമാകാം